ഈ സെഷനിലേക്ക് സ്വാഗതം ടെസ്റ്റിംഗ് ഒബ്ജക്റ്റ് ഓറിയന്റഡ് പ്രോഗ്രാമുകളെക്കുറിച്ചുള്ള ഞങ്ങളുടെ ചർച്ച തുടരും കഴിഞ്ഞ സെഷനിൽ ഒബ്ജക്റ്റ് ഓറിയന്റഡ് പാരഡൈഗത്തിൽ വളരെയധികം പ്രതീക്ഷകളുണ്ടെന്ന് ഞങ്ങൾ പറഞ്ഞത് ഓർക്കുക ഒബ്ജക്റ്റ് ഓറിയന്റഡ് പാരഡൈം ടെസ്റ്റിങ് വളരെ ലളിതമാക്കുമെന്ന് പ്രതീക്ഷിച്ചിരുന്നതിനാൽ ഒബ്ജക്റ്റ് ഓറിയന്റേഷൻ വളരെ നന്നായി രൂപപ്പെട്ട തത്വങ്ങളിൽ കാണപ്പെടുന്നു ഒബ്ജക്റ്റ് ഓറിയന്റഡ് പ്രോഗ്രാമുകളിൽ അവതരിപ്പിച്ച വ്യത്യസ്ത സവിശേഷതകൾ യഥാർത്ഥത്തിൽ പരിശോധന ബുദ്ധിമുട്ടാക്കുന്നതായി ഞങ്ങൾ കാണുന്നു അല്ലെങ്കിൽ അവ വ്യത്യസ്ത ടെസ്റ്റിംഗ് തന്ത്രങ്ങൾ ആവശ്യമുള്ള പുതിയ തരം ബഗുകൾക്ക് കാരണമാകുന്നു കഴിഞ്ഞ തവണ നമ്മൾ ചർച്ച ചെയ്യുന്നിടത്ത് നിന്ന് നമുക്ക് തുടരാം ഒബ്ജക്റ്റ് ഓറിയന്റഡ് പാരഡൈം ന്റെ സവിശേഷത ഇൻഹെറിടെൻസ് ആണ് ഇൻഹെറിടെൻസ് കോഡ് പുനരുപയോഗത്തിന് സഹായിക്കുന്നു ബേസ് ക്ലാസിൽ കോഡ് റിട്ടേൺ ചെയ്താൽ കോഡ് ഡിറൈവ്ഡ് ക്ലാസുകളിൽ വീണ്ടും ഉപയോഗിക്കും അതിനാൽ ബേസിക് ക്ലാസിൽ മെത്തേഡ്കൾ പരീക്ഷിച്ചിട്ടുണ്ടെങ്കിൽ ആ മെത്തേഡ്കൾ അവ ഡിറൈവ്ഡ് ക്ലാസിൽ ഇൻഹെറിറ്റ് ചെയ്താൽ അവ വീണ്ടും ടെസ്റ്റ് ചെയ്യേണ്ടതുണ്ടോ എന്നതാണ് ചോദ്യം ഇൻഹെറിറ്റെഡ് മെത്തേഡ്കൾ പുനപരിശോധിക്കുന്നത് ഒഴിവാക്കലല്ല മറിച്ച് നിയമമാണെന്ന് ഞങ്ങൾ കഴിഞ്ഞ സെഷനിൽ കണ്ടു അതിനാൽ ഇൻഹെറിറ്റെഡ് ആയി ലഭിച്ച എല്ലാ മെത്തേഡ്കളും ബേസ് ക്ലാസിൽ നന്നായി പ്രവർത്തിച്ചിട്ടുണ്ടെങ്കിലും അവ ഡിറൈവ്ഡ് ക്ലാസ്സിൽ ശരിയായി പ്രവർത്തിക്കും എന്നതിന് യാതൊരു ഉറപ്പുമില്ല അതിനാൽ ഇൻഹെറിറ്റെഡ് മെത്തേഡ് ഡിറൈവ്ഡ് ക്ലാസിൽ വീണ്ടും പരിശോധിക്കേണ്ടതുണ്ട് അതിനാൽ ഇത് നിങ്ങളുടെ ക്ലാസ് ശ്രേണികളാണെങ്കിൽ ഒരു ബേസ് ക്ലാസ്സ് ഉണ്ട് തുടർന്ന് ഒന്നാം ലെവൽ ഡിറൈവ്ഡ് ക്ലാസുകളിൽ പുതിയ ഡാറ്റയും മെത്തേഡ്കളും അവതരിപ്പിച്ചു തുടർന്ന് ഈ രണ്ട് മെത്തേഡ്കളും രണ്ടാം ലെവൽ ഡിറൈവ്ഡ് ക്ലാസുകൾ ഇൻഹെറിറ്റ് ചെയ്യുന്നു ഈ മെത്തേഡ്കൾ എല്ലാം ബേസ് ലെവൽ ക്ലാസ് ഇൻഹെറിറ്റ് ചെയ്യുന്നു ലീഫ് ലെവൽ ക്ലാസ്സ് എല്ലാം വീണ്ടും പരിശോധിക്കേണ്ടതുണ്ട് നിങ്ങൾ ഓർക്കുന്നുവെങ്കിൽ ഉപയോഗത്തിന്റെ ഒരു പുതിയ കോൺടെക്സ്റ്റ് ഉള്ളതിനാൽ വീണ്ടും പരിശോധന ആവശ്യമാണെന്ന് ഞങ്ങൾ പറഞ്ഞിരുന്നു ഉപയോഗത്തിന്റെ പുതിയ കോൺടെക്സ്റ്റ് എന്ന പദം കൊണ്ട് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് ഡിറൈവ്ഡ് ക്ലാസിൽ അവതരിപ്പിച്ച പുതിയ ക്ലാസ് വേരിയബിളുകൾ ഉണ്ടാകാം എന്നാണ് ഡിറൈവ്ഡ് ക്ലാസിൽ പുതിയ മെത്തേഡ്കൾ ഉണ്ടാകാം അതാണ് ഇൻഹെറിറ്റെഡ് മെത്തേഡ്കൾ ഉപയോഗിക്കപ്പെടുന്ന പുതിയ കോൺടെക്സ്റ്റ് അതിനാൽ അവ പരീക്ഷിക്കപ്പെടേണ്ടതുണ്ട് ഇതാണ് വെയ്ക്കാരന്റെ ആന്റികമ്പോസിഷൻ ആക്സിയത്തിൽ Weyukar's Anti Composition axiom നിന്ന് പിന്തുടരുന്നത് അതിനാൽ ഉയർന്ന ലെവലിൽ ഉള്ള ഒരു മെത്തേഡ് ശരിയായ പെരുമാറ്റം ലോവർ ലെവൽ ക്ലാസിൽ പെരുമാറുമെന്ന് ഉറപ്പുനൽകുന്നില്ല നമുക്ക് ഒരു ഉദാഹരണം നോക്കാം നമുക്ക് ഒരു ബേസ് ക്ലാസ് A ഉണ്ട് അവിടെ ഒരു ക്ലാസ് വേരിയബിൾ x 100 ന് മൂല്യം നൽകിയിരിക്കുന്നു തുടർന്ന് നമുക്ക് x ന്റെ മൂല്യം കൈകാര്യം ചെയ്യുന്ന ഒരു മെത്തേഡ് m ഉണ്ട് പക്ഷേ മൂല്യം എല്ലായ്പ്പോഴും 100 ൽ കൂടുതലാണെന്ന് ഉറപ്പാക്കുന്നു ആ മെത്തേഡ് ശരിയായി പ്രവർത്തിക്കുന്നതിന് അത് എല്ലായ്പ്പോഴും 100 ആയിരിക്കണം പക്ഷേ പിന്നീട് ഇത് ഒരു ക്ലാസിലേക്ക് വ്യാപിപ്പിച്ചപ്പോൾ ഒരു പുതിയ മെത്തേഡ് m1 അവതരിപ്പിച്ചു എന്നാൽ പിന്നീട് ക്ലാസ് A B ലേക്ക് വിപുലീകരിച്ച പ്രോഗ്രാമർ ഇവിടെ x 100 ആകുമെന്ന ഇൻവേറിയന്റ് ശ്രദ്ധിക്കുന്നില്ല അതിനാൽ അദ്ദേഹം അസ്സൈൻ ചെയ്ത x എന്നത് 1 ന് തുല്യമാണ് അതിനാൽ m 1 എന്നു വിളിക്കുന്ന Aയിൽ ഒരിക്കൽ ശരിയായി പ്രവർത്തിക്കുന്ന m പരാജയപ്പെടും വിപുലീകരിച്ച ക്ലാസ്സ് Bയിൽ m മെത്തേഡ് പരാജയപ്പെടും അതിനാൽ m ൽ m 1 ന്റ്റെ എക്സിക്യൂഷൻ A ബഗിന് കാരണമാകുന്നു അതിനാൽ വിപുലമായ ക്ലാസ് Bയിൽ ഞങ്ങൾ ഇവിടെ m പരീക്ഷിച്ചില്ലെങ്കിൽ ഞങ്ങൾക്ക് ആ ബഗ് കണ്ടെത്താൻ കഴിയില്ല ഇവിടെ മറ്റൊരു ഉദാഹരണം ഉണ്ട് ഇവിടെ നമുക്ക് m1 m2 എന്നീ രണ്ട് മെത്തേഡ്കളുള്ള ഒരു ക്ലാസ് A ഉണ്ട് m m2 മെത്തേഡ് കളെയും B എക്സ്റ്റെൻറ് ചെയ്ത A എന്ന ക്ലാസ് മെത്തേഡ് m2 ഓവെർറൈഡ് ചെയ്യുന്നു അതിനാൽ ഡൈനമിക് ബൈൻഡിംഗ് കാരണം ക്ലാസ് B യുടെ കോൺടെക്സ്റ്റ് ഇൽ ഇപ്പോൾ m വിളിക്കുമ്പോൾ ക്ലാസ് B യുടെ m 2 വിളിക്കപ്പെടും അതിനാൽ ക്ലാസ്സ് A യുടെ കോൺടെക്സ്റ്റ് ഇൽ m ശരിയായി പ്രവർത്തിച്ചിട്ടുണ്ടെങ്കിലും ക്ലാസ്സ് B ഇൽ m ഇൻഹെറിറ്റെഡ് ആയി ലഭിക്കുമ്പോൾ m m2 നെ വിളിക്കുന്നു എന്നാൽ m 2 ക്ലാസ് B ലെ m 2 മായി ബന്ധിപ്പിക്കും അതിനാൽ m B ക്ലാസ്സിൽ പരാജയപ്പെടാം അതിനാൽ നമുക്ക് മറ്റ് നിരവധി ഉദാഹരണങ്ങൾ നിർമ്മിക്കാൻ കഴിയും അതിനാൽ ഒരു ബേസ് ക്ലാസ്സിൽ ശരിയായി പ്രവർത്തിക്കുന്ന മെത്തേഡ് ഡിറൈവ്ഡ് ക്ലാസ്സിൽ ശരിയായി പ്രവർത്തിക്കാൻ കഴിയുന്നില്ല ബേസ് ക്ലാസ്സിൽ ഒരു മെത്തേഡ് ശരിയായി പ്രവർത്തിക്കുന്ന കുറച്ച് ഉദാഹരണങ്ങൾ സ്വയം നിർമ്മിക്കാൻ ഞാൻ നിങ്ങളോട് അഭ്യർത്ഥിക്കുന്നു എന്നാൽ പിന്നീട് വിപുലീകരിക്കുകയും മെത്തേഡ് പരാജയപ്പെടുകയും ചെയ്യുമ്പോൾ അത് എങ്ങനെ എന്തുകൊണ്ട് മെത്തേഡ്കൾ വീണ്ടും പരിശോധിക്കേണ്ടതുണ്ട് എന്നതിനെക്കുറിച്ച് ഒരു ധാരണ നൽകും ദയവായി ശ്രമിക്കുക തീർച്ചയായും ഒരു ഡിറൈവ്ഡ് ക്ലാസിൽ ഒരു ഓവർറിഡൻ മെത്തേഡ് ഉണ്ടെങ്കിൽ വ്യക്തമായും അത് പരീക്ഷിക്കേണ്ടതുണ്ട് ഡിറൈവ്ഡും ഓവർറിഡൻ ഉം ആയ മെത്തേഡ് അവതരിപ്പിച്ച ചെറിയ മാറ്റമുണ്ടാകാമെങ്കിലും ഒരു ഡിറൈവ്ഡ് ക്ലാസ്സിൽ നോക്കിയാൽ നമ്മൾ എല്ലാ പുതിയ മെത്തേഡ്കളും വ്യക്തമായി പരിശോധിക്കേണ്ടതുണ്ട് കാരണം ഇവ ആദ്യമായി വീണ്ടും പരിശോധിക്കപ്പെടും എല്ലാ ഇൻഹെറിറ്റെഡ് മെത്തേഡ്കളും പരീക്ഷിക്കേണ്ടതുണ്ട് കാരണം ഈ ഇൻഹെറിറ്റെഡ് മെത്തേഡ്കൾ ഡിറൈവ്ഡ് ക്ലാസ് ന്റ്റെ കോൺടെക്സ്റ്റ് ഇൽ ഉപയോഗിക്കേണ്ടതുണ്ട് കൂടാതെ ഓവർറിഡൻ ചെയ്ത എല്ലാ മെത്തേഡ്കളും റീഡിഫയിൻ ചെയ്ത മെത്തേഡ്കളും പരീക്ഷിക്കേണ്ടതുണ്ട് അതിനാൽ ഒരു ഡിറൈവ്ഡ് ക്ലാസിന്റെ എല്ലാ മെത്തേഡ്കളും പരീക്ഷിക്കപ്പെടണം എന്നാണ് ശരിക്കും അർത്ഥമാക്കുന്നത് അതിനാൽ ഒബ്ജക്റ്റ് ഓറിയന്റേഷൻ ഒരു ടെസ്റ്റിംഗിനെ സംബന്ധിച്ചിടത്തോളം ഇൻഹെറിറ്റെൻസ് സംബന്ധിച്ചിടത്തോളം ടെസ്റ്റിംഗ് ശ്രമം കുറയ്ക്കുന്നതിന് ഒരു പ്രയോജനവും നൽകുന്നില്ല ഇപ്പോൾ റിഗ്രഷൻ ടെസ്റ്റിന്റെ കാര്യമോ ഞങ്ങൾ ഒരു ക്ലാസ്സ് ഹയിരാർക്കി ആണെങ്കിൽ ഒരു ടോപ്പ് ലെവൽ ക്ലാസിലെ ഒരു മെത്തേഡിലേക്ക് ഞങ്ങൾ ഒരു ചെറിയ മാറ്റം വരുത്തുകയാണെങ്കിൽ മറ്റ് ക്ലാസുകളിൽ നിങ്ങൾ എന്തുചെയ്യണം നമുക്ക് ടോപ്പ് ലെവൽ ക്ലാസിൽ ഈ മെത്തേഡ് പരീക്ഷിച്ച് അത് അവിടെ ലീവ് ചെയ്യണോ അതോ ക്ലാസ് ഹയിരാർക്കിയിലെ എല്ലാ ക്ലാസുകളിലും ഒരേ മെത്തേഡ് ഞങ്ങൾ എല്ലാ ക്ലാസ് ഹയിരാർക്കിയിലും പരീക്ഷിക്കണോ അതിനാൽ നിർഭാഗ്യവശാൽ ഞങ്ങൾ ഒരു ചെറിയ മാറ്റം വരുത്തുകയാണെങ്കിൽ ഈ ക്ലാസുകളിലെല്ലാം ഇൻഹെറിറ്റെഡ് ആയി ലഭിക്കുന്ന ബേസ് ക്ലാസിലെ ഒരു മെത്തേഡ് ആണ് show address എന്ന് പറയട്ടെ ഇപ്പോൾ ഞാൻ ഒരു ആപ്ലിക്കേഷൻ വികസിപ്പിച്ചതിനുശേഷം ബേസ് ക്ലാസിൽ ഈ മെത്തേഡിലേക്ക് ഞങ്ങൾ ഒരു ചെറിയ മാറ്റം വരുത്തുന്നുവെന്ന് നമുക്ക് പറയാം അതിനാൽ ഞങ്ങൾ അത് ബേസ് ക്ലാസിൽ നന്നായി പരീക്ഷിച്ച് അവിടെ ഉപേക്ഷിക്കുമോ ഇല്ല ഹയിരാർക്കിയിലെ എല്ലാ ക്ലാസുകളിലും ഞങ്ങൾ ഒരേ മെത്തേഡ് പരീക്ഷിക്കേണ്ടതുണ്ട് ഞങ്ങൾക്ക് ഡീപ് ക്ലാസ് ഹയിരാർക്കി ഉണ്ടെങ്കിൽ നമുക്ക് ധാരാളം പരിശോധനകൾ ചെയ്യാനുണ്ട് നമുക്ക് ഒരു ഡിറൈവ്ഡ് ക്ലാസിൽ ഒന്നോ രണ്ടോ മെത്തേഡ്കൾ അല്ലെങ്കിൽ കുറച്ച് ഡാറ്റാ വേരിയബിളുകൾ ചേർക്കാം എന്നാൽ ഇൻഹെറിറ്റെഡ് ആയി ലഭിച്ച എല്ലാ മെത്തേഡ്കളും വീണ്ടും പരീക്ഷിക്കേണ്ടതുണ്ട് കൂടാതെ നിരവധി മെത്തേഡ്കൾ ഒരു ഗ്ലോബൽ വേരിയബിൾ പരസ്പരം ആക്സസ് ചെയ്യുന്നതിനാൽ ഇവിടെ എററുകൾ ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ് ഇത് നമുക്ക് ഗ്ലോബൽ വേരിയബിളുകളുള്ള ഒരു പ്രൊസീജ്യറൽ പ്രോഗ്രാം പോലെയാണ് എല്ലാ മെത്തേഡ്കളും അവയിലൂടെ പരസ്പരം ഇടപെടുന്നു ഡീപ് ഹയിരാർക്കിയുടെ കാര്യത്തിൽ എൻക്യാപ്സുലേഷൻ ദുർബലമാകും അതിനാൽ നമുക്ക് ഒരു ഡീപ് ഹയിരാർക്കി ക്ലാസ്സ് ഉണ്ടെങ്കിൽ എന്തായിരിക്കാം പരിഹാരം ഒരു കാര്യം ഡീപ് ഹയിരാർക്കി ക്ലാസ്സ് നു ബഗുകൾ അവതരിപ്പിക്കാം സോഫ്റ്റ്വെയറിന്റെ വിശ്വാസ്യത കുറയുന്നു പരീക്ഷണക്ഷമത കുറയ്ക്കാം കാരണം ധാരാളം ടെസ്റ്റ് കെയർ ടെസ്റ്റിംഗിന് വളരെയധികം പരിശോധനകൾ നടത്തണ്ടി വരുന്നു കൂടാതെ തെറ്റായ ഇനീഷ്യലൈസേഷനും മറന്നുപോയ മെത്തേഡ്കളും ആയിരിക്കും ഫലം അതിനാൽ ഒരു സാധ്യത നമുക്ക് ക്ലാസ് ഹയിരാർക്കിയെ ഫ്ലാറ്റെൻ ചെയ്യാം പക്ഷേ അതിന് അതിന്റേതായ പ്രശ്നവുമുണ്ട് അതിനാൽ ഡീപ് ക്ലാസ്സ് ഹയിരാർക്കി നല്ലതല്ല കൂടാതെ C പോലുള്ള ഒരു ഭാഷയിലെന്നപോലെ നമുക്ക് മൾട്ടിപ്പിൾ ഇൻഹെറിടെൻസ് ഉണ്ടെങ്കിൽ നമുക്ക് പരീക്ഷിക്കാൻ വളരെയധികം കോൺടെക്സ്റ്റ്കൾ ഉണ്ടായേക്കാം ഇപ്പോൾ അബ്സ്ട്രാക്ട് ഉം ജെനറിക്ക് ക്ലാസുകളുടെ കാര്യമോ കോഡിന്റെ പുനരുപയോഗം വർദ്ധിപ്പിക്കുന്നതിന് ഒബ്ജക്റ്റ് ഓറിയന്റഡ് പ്രോഗ്രാമുകളിൽ അബ്സ്ട്രാക്ട് ക്ലാസുകൾ നൽകിയിട്ടുണ്ട് എന്നാൽ പിന്നീട് നമുക്ക് അബ്സ്ട്രാക്ട് ക്ലാസ് പല തരത്തിൽ വിപുലീകരിക്കാൻ കഴിയും അതിനാൽ ഒരു അബ്സ്ട്രാക്ട് ക്ലാസ് ഒരിക്കലും പൂർണ്ണമായി പരീക്ഷിച്ചതായി കണക്കാക്കില്ല അതിനാൽ ഞങ്ങൾ ചെയ്യുന്നില്ല അബ്സ്ട്രാക്ട് ആയ ക്ലാസ് നേരിട്ട് പരീക്ഷിക്കാനാകാത്തതിനാൽ അത് തൽക്ഷണം ചെയ്യാൻ കഴിയില്ല അതിനാൽ ഞങ്ങൾ അത് അതിന്റെ ഡിറൈവ്ഡ് ക്ലാസുകളിലൂടെ മാത്രമേ പരീക്ഷിക്കുകയുള്ളൂ ഓരോ തവണയും ഞങ്ങൾക്ക് ഒരു ഡിവൈസ്ഡ് ക്ലാസ് ഉണ്ടാകുമ്പോൾ അത് പരീക്ഷിക്കാൻ ഒരു കേസ് ഉണ്ട് ഇപ്പോൾ പോളിമോർഫിസത്തിന്റെ കാര്യമോ ഒബ്ജക്റ്റ് ഓറിയന്റഡ് പ്രോഗ്രാമിംഗിന്റെ മറ്റൊരു പ്രധാന സവിശേഷതയാണിത് അതിനാൽ പോളിമോർഫിസം ഒബ്ജക്റ്റ് ഓറിയന്റഡ് പ്രോഗ്രാമിംഗിൽ ഒരു സ്റ്റാറ്റിക് ബൈൻഡിംഗ് അല്ലെങ്കിൽ ഡൈനാമിക് ബൈൻഡിംഗ് ആണെന്ന് നമുക്കറിയാം അതിനാൽ ഓരോ കേസിലും പ്രത്യേക പരിശോധന ആവശ്യമാണ് കുറഞ്ഞത് സ്റ്റാറ്റിസ്റ്റിക് ബൈൻഡിംഗിനു എങ്കിലും നമുക്കറിയാം അതിനെ ബന്ധിപ്പിക്കുന്ന മെത്തേഡ്കൾ എന്തൊക്കെയാണ് എന്നാൽ ഡൈനമിക് ബൈൻഡിംഗിന്റെ കാര്യത്തിൽ പല ക്ലാസുകളിലും അത് ഡൈനമിക് ആയി ബന്ധിപ്പിക്കാൻ കഴിയും അതിനാൽ എല്ലാ ബൈൻഡിംഗുകളും കണ്ടെത്തുന്നത് ബുദ്ധിമുട്ടായേക്കാം കാരണം വ്യത്യസ്ത പ്രോഗ്രാമർമാർ ക്ലാസുകൾ എക്സ്റ്റെൻറ് ചെയ്തേക്കാം ഈ ഉദാഹരണം നോക്കൂ ക്ലാസ് Cക്ക് ഒരു മെത്തേഡ് ഉണ്ട് അത് S1 S2 S3 എന്നിവയുടെ മെത്തേഡിലേക്ക് മൌണ്ട് ചെയ്യുന്നു അതിനാൽ ഞങ്ങൾ S2 S3 S1 എന്നിവ പരീക്ഷിച്ച് സംയോജിപ്പിച്ചിട്ടില്ലെങ്കിൽ ഇന്റേഗ്രേഷൻ ടെസ്റ്റിങ് ഇൽ ഞങ്ങൾക്ക് ബുദ്ധിമുട്ടാവും അതിനാൽ നമുക്ക് C പരീക്ഷിക്കാൻ കഴിയില്ല അതിനാൽ C ക്ലാസിന് സേവനം നൽകുന്ന സെർവർ ക്ലാസുകൾ ക്ലയന്റ് ക്ലാസാണ് ഇവ പരീക്ഷിച്ച് സംയോജിപ്പിച്ചിട്ടില്ലെങ്കിൽ ഞങ്ങൾക്ക് C പരീക്ഷിക്കാൻ കഴിയില്ല അതിനാൽ ഡൈനമിക് ബൈൻഡിംഗ് പരിശോധനയിൽ ആശങ്കയുണ്ടാക്കുന്നു എന്തുകൊണ്ടെന്നാൽ എന്തെല്ലാം ബന്ധങ്ങളുണ്ടാകാം എന്ന് നമുക്കറിയില്ല ഒരു ഉദാഹരണം നൽകാൻ ഒരു പ്രോഗ്രാമിൽ സംഭവിക്കാനിടയുള്ള എല്ലാ ഡിപെൻഡെൻസികളും കണ്ടെത്താൻ ഞങ്ങൾക്ക് കോഡ് അനാലിസിസ് സ്റ്റാറ്റിസ്റ്റിക് വിശകലനം ഉപയോഗിക്കാൻ കഴിയില്ല നമുക്ക് പറയാം ഞങ്ങൾക്ക് ഒരു ക്ലാസ് മെംബർ ഉണ്ട് തുടർന്ന് ഞങ്ങൾക്ക് ഇവിടെ ഒരു മെത്തേഡ് ഉണ്ട് ബൂലിയൻ വാലിഡേറ്റ് പേയ്മെന്റ് ഉണ്ടെന്ന് പറയട്ടെ അതിനാൽ മെംബർ ന് ഒരു ഇന്ത്യൻ അക്കൌണ്ട് UK അക്കൌണ്ട് യൂറോപ്യൻ യൂണിയൻ അക്കൌണ്ട് അല്ലെങ്കിൽ ജാപ്പനീസ് അക്കൌണ്ട് അല്ലെങ്കിൽ മറ്റേതെങ്കിലും അക്കൌണ്ട് എന്നിവ ഉണ്ടായിരിക്കാം ഞങ്ങൾ അത് ഒരു വിസ കാർഡ് അമേരിക്കൻ എക്സ്പ്രസ് കാർഡ് അല്ലെങ്കിൽ ഡെബിറ്റ് കാർഡ് വഴി അടയ്ക്കാം ഒരിക്കൽ വാലിഡേറ്റ് പേയ്മെന്റ് മെത്തേഡ് വിളിക്കപ്പെടുമ്പോൾ ആദ്യം അംഗം അത് ഡിറൈവ്ഡ് മെംബർ ആയ ഗോൾഡ് അംഗങ്ങൾ സിൽവർ അംഗങ്ങൾ സാധാരണ അംഗങ്ങൾ എന്നിവരുമായി ബന്ധപ്പെട്ടിരിക്കുന്നു അതിനാൽ ആദ്യം മെംബറുമായി ബന്ധപ്പെട്ട് ഉണ്ടായേക്കാവുന്ന ബൈൻഡിംഗ് ആണ് ഇപ്പോൾ ഞങ്ങൾ ഫംഗ്ഷൻ മെംബർ ഡോട്ട് വാലിഡേറ്റ് പേയ്മെന്റ് ചെയ്യുമ്പോൾ വാലിഡേറ്റ് പേയ്മെന്റും കാർഡിലെ അക്കൌണ്ടിന് ഇതിലേതെങ്കിലുമൊന്ന് ബന്ധപ്പെടാം ഇവിടെ 3 ഉണ്ട് അവിടെ 5 ഉണ്ട് പിന്നെ ഇവിടെ 3 ഉണ്ട് അതിനാൽ പരിശോധിക്കാൻ ഞങ്ങൾക്ക് 45 സാധ്യമായ കോമ്പിനേഷനുണ്ട് ഞങ്ങൾക്ക് ഇവിടെ കൂടുതൽ പാരാമീറ്ററുകൾ ഉണ്ടായിരിക്കാം കൂടാതെ ടെസ്റ്റ് കേസുകളുടെ എണ്ണം വർദ്ധിച്ചേക്കാം പെയർ വൈസ് ടെസ്റ്റിംഗ് ഞങ്ങൾ പരീക്ഷിച്ചേക്കാം എന്നതാണ് ഒരു സാധ്യത അതിനാൽ പെയർ വൈസ് പരിശോധനയ്ക്കായി ഞങ്ങൾ ഡയഗ്രം ഇവിടെ വരച്ചു ഞങ്ങൾക്ക് ഇതുപോലുള്ള ഒരു ഹയിരാർക്കി ഉണ്ട് m ഉണ്ട് ഈ ഒബ്ജക്റ്റ്കൾ m ന്റെ സ്ഥാനത്ത് സ്ഥാപിക്കാവുന്നതാണ് അതിനാൽ അവ ബന്ധിക്കപ്പെടാം മെത്തേഡ് ഇതിലേതെങ്കിലും ബന്ധിക്കപ്പെടാം അതിനാൽ പെയർ വൈസ് ടെസ്റ്റ് കേസുകൾ നമുക്ക് എങ്ങനെ ലഭിക്കും അതിനാൽ ദയവായി അതിനെക്കുറിച്ച് ചിന്തിക്കുക കുറച്ച് സമയങ്ങൾക്ക് മുമ്പ് ഞങ്ങൾ പെയർ വൈസ് പരിശോധനയെക്കുറിച്ച് ചർച്ച ചെയ്തിരുന്നു ഞങ്ങൾക്ക് ഒരേ കോൺടെക്സ്റ്റ് ഉപയോഗിക്കാം ഞാൻ ഉദ്ദേശിച്ചത് ഇവിടെ ഒരേ ആശയം ഉപയോഗിക്കുകയും പെയർ വൈസ് ടെസ്റ്റ് കേസുകൾ കണ്ടെത്തുകയും ചെയ്യുന്നു ഉയർന്നുവരുന്ന മറ്റൊരു സങ്കീർണത മൂല്യങ്ങൾ പെർമനെന്റ് ആയി സ്റ്റോർ ചെയ്യുന്ന ആട്രിബ്യൂട്ടുകൾ ഇല്ലാത്ത ഫംഗ്ഷനുകളിൽ നിന്ന് വ്യത്യസ്തമായി ക്ലാസ് ആട്രിബ്യൂട്ടുകൾ മൂല്യങ്ങൾ പെർമനെന്റ് ആയി സ്റ്റോർ ചെയ്യുന്നു അതിനാൽ ഒരു ക്ലാസിന് സ്റ്റേറ്റ് ഉള്ളതായി നമുക്ക് പരിഗണിക്കാം ഒരു ക്ലാസ് പ്രതിനിധീകരിക്കാം ഒരു പ്രൊസീജ്യറൽ പ്രോഗ്രാമിൽ ഒരു സ്റ്റേറ്റ് മോഡൽ ഉപയോഗിച്ച് ഒരു ക്ലാസിന്റെ സ്റ്റേറ്റ് ബിഹേവിയർ പ്രതിനിധീകരിക്കാം മെത്തേഡ് കോളിംഗ് അല്ലെങ്കിൽ ഒരു ഫംഗ്ഷൻ മറ്റൊരു ഫംഗ്ഷൻ വിളിക്കുന്നതിലൂടെയും ഫംഗ്ഷനുകൾക്കിടയിൽ സാധ്യമായ എല്ലാ കോളുകളിലൂടെയും നമുക്ക് ഇത് പരീക്ഷിക്കാം അവയുടെ സംയോജനം നമുക്ക് പരിശോധിക്കാനാകും എന്നാൽ ഇവിടെ ഒന്നാമതായി ഒരു ക്ലാസ് ടെസ്റ്റിംഗ് യൂണിറ്റാണ് ഒരു മെത്തേഡ് മറ്റ് മെത്തേഡ്കളെ ഇൻവോക് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ ഒരു മെത്തേഡ് ഇൻവോക് ചെയ്യുകയും മറ്റ് മെത്തേഡ്കൾ കഴിയുന്ന എല്ലാ വഴികളിലൂടെയും പരീക്ഷിച്ചാൽ മാത്രം പോരാ എന്ന് നമ്മൾ പരിഗണിക്കണം ക്ലാസിലെ വിവിധ സ്റ്റേറ്റ്കളിലും നമ്മൾ ഇത് പരീക്ഷിക്കേണ്ടതുണ്ട് ക്ലാസിന്റെ സ്റ്റേറ്റ്കൾ ഒരു സ്റ്റേറ്റ് മോഡൽ നൽകുന്നു കൂടാതെ മെത്തേഡ് കോളുകളിൽ ഒബ്ജക്റ്റ് സ്റ്റേറ്റ് എങ്ങനെ മാറുന്നുവെന്ന് വ്യക്തമാക്കുന്നു ഒരു ഒബ്ജക്റ്റ്നായി ഒരു മെത്തേഡ് വിളിക്കപ്പെടുമ്പോൾ ചില ആട്രിബ്യൂട്ടുകൾ മാറാം അതിനാൽ ഒബ്ജക്റ്റ്ന് അതിന്റെ സ്റ്റേറ്റ് മാറ്റാൻ കഴിയും അതിനാൽ നമ്മൾ ആദ്യം ഒരു ക്ലാസിന്റെ സ്റ്റേറ്റ് മോഡൽ നിർമ്മിക്കേണ്ടതുണ്ട് സ്റ്റേറ്റ് മോഡൽ അങ്ങനെ വിവിധ സ്റ്റേറ്റ്കൾ ഇൻസ്റ്റെൻസ് വേരിയബിളുകൾ ഡിഫയിൻ ചെയ്തിരിക്കുന്ന ഇക്വലെനറ്റ് ക്ലാസ് ഉപയോഗിച്ച് നിർമ്മിക്കാനാകും അതിനാൽ ഒരു ഒബ്ജക്റ്റ്ന്റെ ഇൻസ്റ്റൻസ് വേരിയബിളുകൾ അവർ യഥാർത്ഥത്തിൽ സ്റ്റേറ്റ്കളെ നിർവ്വചിക്കുന്നു എന്നാണ് നമ്മൾ ശരിക്കും അർത്ഥമാക്കുന്നത് നമുക്ക് പറയാം ഒരു ഇൻസ്റ്റൻസ് വേരിയബിളിന് 1 2 3 മൂല്യങ്ങൾ അസ്സ്യൂം ചെയ്യാൻ കഴിയും അങ്ങനെയാണെങ്കിൽ നമുക്ക് മൂന്ന് സ്റ്റേറ്റ്കൾ ഉണ്ടെന്ന് പറയാം മൂല്യം 1 അല്ലെങ്കിൽ 2 അല്ലെങ്കിൽ 3 ആകയാൽ ഇൻസ്റ്റൻസ് വേരിയബിളുകളിൽ ഇക്വലെനറ്റ് ക്ലാസുകൾ നമുക്ക് നിർവ്വചിക്കാനാകും അതായത് ക്ലാസുകൾ അതേ സ്റ്റേറ്റ് ഇൽ നിലനിൽക്കുന്ന മൂല്യങ്ങൾ അവ ഇക്വലെനറ്റ് ആണ് അതിനാൽ നമുക്ക് ഇക്വലെനറ്റ് ക്ലാസുകൾ നിർവ്വചിക്കാൻ കഴിയും അത് ക്ലാസിന്റെ സ്റ്റേറ്റ് നിർണ്ണയിക്കാൻ ഞങ്ങളെ സഹായിക്കും ഒരിക്കൽ നമുക്ക് സ്റ്റേറ്റ് മോഡൽ ജേക്കബ്സണിന്റെ ഒബ്ജക്റ്റ് ഓറിയന്റഡ് സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗ് Jacobson's object oriented software engineering അഡ്വൊകേറ്റ് ചെയ്യുന്നത് എല്ലാ സ്റ്റേറ്റ് ട്രാൻസിഷനുകളും ഉൾക്കൊള്ളാൻ ഞങ്ങൾക്ക് ടെസ്റ്റ് കേസുകൾ ഉണ്ടായിരിക്കണം ഓരോ സ്റ്റേറ്റ് യിലും മാത്രമല്ല എല്ലാ മെത്തേഡ്കളും പരീക്ഷിക്കേണ്ടതുണ്ട് അതിനാൽ ഒരിക്കൽ മെത്തേഡ്കൾ പരീക്ഷിച്ചാൽ മാത്രം പോരാ എല്ലാ സ്റ്റേറ്റ്കളും ഞങ്ങൾ കവർ ചെയ്യണം എല്ലാ സ്റ്റേറ്റ് ട്രാൻസിഷനുകളും കവർ ചെയ്യുന്ന ടെസ്റ്റ് കേസുകൾ ഡിസൈൻ ചെയ്യുക തുടർന്ന് ഓരോ സ്റ്റേറ്റ്ലും ഞങ്ങൾ മെത്തേഡ്കൾ പരിശോധിക്കേണ്ടതുണ്ട് അതിനാൽ ഇത് ഒരു സ്റ്റേറ്റ് മോഡൽ ന്റെ ഉദാഹരണമാണ് വ്യത്യസ്ത സ്റ്റേറ്റ് ട്രാൻസിഷനുകളിലൂടെ ഒബ്ജക്റ്റ് വ്യത്യസ്ത സ്റ്റേറ്റ് ഏറ്റെടുക്കേണ്ടതുണ്ട് തുടർന്ന് ഓരോ സ്റ്റേറ്റ്ലെയും മെത്തേഡ്കളുടെ പൂർണ്ണ പരിശോധന ഞങ്ങൾ നടത്തേണ്ടതുണ്ട് എന്നാൽ നമുക്ക് ഒന്നിലധികം ക്ലാസുകൾ ഉണ്ടെങ്കിൽ ഓരോരുത്തർക്കും അതിന്റേതായ സ്റ്റേറ്റ് ഉണ്ടെന്ന് പരിശോധിക്കുക ഓരോ ക്ലാസ്സും ഞങ്ങൾ എങ്ങനെ ഉണ്ടാക്കും വ്യത്യസ്ത സ്റ്റേറ്റ്കളുടെ വ്യത്യസ്ത സാധ്യമായ കോമ്പിനേഷനുകൾ അത് വളരെ ബുദ്ധിമുട്ടുള്ള പ്രശ്നം ആണ് കാരണം ഞങ്ങൾ ഓരോ ക്ലാസിലും ഇൻഡിവിജുവൽ ആയി കൂടുതൽ ഇൻവോക് ചെയ്യുന്ന മെത്തേഡ്കളല്ല ഞങ്ങൾ ഒരു യൂസ് കേസ് പ്രയോഗിക്കുന്നു ഒന്നിലധികം ക്ലാസുകളുണ്ട് ഞങ്ങൾ ഒരു ക്ലാസിന്റെ മെത്തേഡ് ഇൻവോക് ചെയ്യുകയും തുടർന്ന് മറ്റ് മെത്തേഡ്കൾ ഓട്ടോമാറ്റിക്കലി ഇൻവോക് ആവുകയും ചെയ്യുന്നു അതിനാൽ ആ സാഹചര്യത്തിൽ സാധ്യമായ എല്ലാ സ്റ്റേറ്റ്കളിലും ട്രവേർസ് ചെയ്യുന്നത് എളുപ്പമല്ലായിരിക്കാം അതിനാൽ സ്റ്റേറ്റ് കൺട്രോളിന്റെ ലോക്കസ് മുഴുവൻ ഒബ്ജക്റ്റ് ഓറിയന്റഡ് ആപ്ലിക്കേഷനിലും വിതരണം ചെയ്യപ്പെടുന്നു ഓരോ ക്ലാസിനും അതിന്റേതായ സ്റ്റേറ്റ് മോഡൽ ഉണ്ട് എന്നാൽ ഞങ്ങൾ ഒരു ക്ലാസിന്റെ മെത്തേഡ് ആണ് വിളിക്കുന്നത് അതിനാൽ എല്ലാ ക്ലാസുകളുടെയും എല്ലാ സ്റ്റേറ്റ്കളും കവർ ചെയ്യുന്നത് ബുദ്ധിമുട്ടായേക്കാം എന്നാൽ ഞങ്ങൾ കണ്ട ടെസ്റ്റ് കവറേജ് അനാലിസിസ് പ്രൊസീജ്യറൽ പ്രോഗ്രാം ന്റ്റെ പശ്ചാത്തലത്തിൽ ടെസ്റ്റ് കവറേജ് അനാലിസിസ് എന്തായി സ്റ്റേറ്റ്മെന്റ് കവറേജ് കണ്ടീഷൻ കവറേജ് ബ്രാഞ്ച് കവറേജ് പാത്ത് കവറേജ് അങ്ങനെ ആരംഭിക്കുന്ന ടെസ്റ്റ് കവറേജ് അനാലിസിസ് ന്റ്റെ നിരവധി ഉദാഹരണങ്ങൾ ഞങ്ങൾ കണ്ടു പക്ഷേ ഒബ്ജക്റ്റ് ഓറിയന്റഡ് പ്രോഗ്രാമുകളുടെ കാര്യത്തിൽ ആ ടെസ്റ്റ് കവറേജ് മെട്രിക്സ് ഉണ്ടോ നിർഭാഗ്യവശാൽ ഇല്ല അതിനാൽ ടെസ്റ്റ് കവറേജ് മെട്രിക് ആ അളവുകൾ കണക്കുകൂട്ടുന്നതിലൂടെ ഞങ്ങൾ എത്രത്തോളം ടെസ്റ്റ് ചെയ്തുവെന്ന് പരിശോധിക്കുന്നതിന്റെ സമഗ്രത നിർണ്ണയിക്കാൻ സഹായിക്കുന്നു അതിനാൽ ടെസ്റ്റ് കവറേജ് മെട്രിക് സാധാരണയായി നിർവചിക്കുന്നത് എത്ര എലമെൻറ്സ് ഓഫ് ഇൻററസ്റ്റ് കവർ ചെയ്യുന്നു എലമെൻറ്സ് ഓഫ് ഇൻററസ്റ്റ് സ്റ്റേറ്റ്മെൻറ് ആയിരിക്കാം അത് സ്റ്റേറ്റ്മെന്റ് കവറേജ് എലമെൻറ്സ് ഓഫ് ഇൻററസ്റ്റ് ഒരു ബ്രാഞ്ച് ആയിരിക്കാം അത് ബ്രാഞ്ച് കവറേജും മറ്റും ഞങ്ങൾ വ്യക്തമായി ചിന്തിക്കുകയാണെങ്കിൽ സ്റ്റേറ്റ്മെന്റ് കവറേജ് ഒബ്ജക്റ്റ് ഓറിയന്റഡ് പ്രോഗ്രാമിന് അനുയോജ്യമായ ഒരു കവറേജ് മെട്രിക് അല്ല കാരണം ഒരു സ്റ്റേറ്റ്മെന്റ് ബേസ് ക്ലാസിന്റെ കോൺടെക്സ്റ്റ് ഇൽ ഒരിക്കൽ കവർ ചെയ്തിട്ടുണ്ടെങ്കിലും എന്നാൽ പിന്നീട് ഡിറൈവ്ഡ് ക്ലാസ് ന്റ്റെ കോൺടെക്സ്റ്റ് ഇൽ ആണ് ഞങ്ങൾ അത് വീണ്ടും പരീക്ഷിക്കണം അതിനാൽ സ്റ്റേറ്റ്മെന്റ് കവർ ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞാൽ മാത്രം മതിയാകില്ല കാരണം ഇൻഹെറിറ്റെഡ് ഹൈറാർക്കിയും ഇൻഹെറിറ്റെഡ് മെത്തേഡ്കളും വീണ്ടും പരിശോധിക്കേണ്ടതുണ്ട് അതിനാൽ സ്റ്റേറ്റ്മെന്റ് കവറേജ് ഉണ്ടെങ്കിൽ മാത്രമേ ഓരോ സ്റ്റേറ്റ്മെന്റ് ഉം എക്സിക്യൂട്ട് ആവുകയുള്ളൂ കാരണം ഇത് ബേസ് ക്ലാസിന്റെ കോൺടെക്സ്റ്റ് ഇൽ ശരിയായി വർക്ക് ചെയ്യുന്ന സ്റ്റേറ്റ്മെന്റ് ഡിറൈവ്ഡ് ക്ലാസിൽ ശരിയായി പ്രവർത്തിക്കുന്നു എന്നതിന് യാതൊരു ഉറപ്പുമില്ല ഡിറൈവ്ഡ് ക്ലാസിൽ ഇത് വീണ്ടും എക്സിക്യൂട്ട് ചെയ്യേണ്ടതുണ്ട് അതിനാൽ ഒബ്ജക്റ്റ് ഓറിയന്റഡ് പ്രോഗ്രാമുകളുടെ കോൺടെക്സ്റ്റ് ഇൽ സിംമ്പിൾ സ്റ്റേറ്റ്മെന്റ് കവറേജ് അർത്ഥശൂന്യമാണ് അപ്പോൾ ഒബ്ജക്റ്റ് ഓറിയന്റഡ് പ്രോഗ്രാമുകളുടെ കോൺടെക്സ്റ്റ് ഇൽ ഉചിതമായ കവറേജ് ക്രൈറ്റീരിയ എന്താണ് ഇവ ഇപ്പോഴും ഗവേഷണ മേഖലകളാണ് ധാരാളം ഫലങ്ങൾ പുറത്തുവരുന്നു പക്ഷേ ഒബ്ജക്റ്റ് ഓറിയന്റഡ് പ്രോഗ്രാമുകൾക്ക് അനുയോജ്യമായ ടെസ്റ്റ് കവറേജ് മെട്രിക് എന്തായിരിക്കുമെന്ന് നമുക്ക് സ്വന്തമായി അനുമാനിക്കാം ഇപ്പോൾ ടെസ്റ്റ് പ്രോസസ് സ്റ്രാറ്റജി എന്താകും ഒബ്ജക്റ്റ് ഓറിയന്റഡ് പ്രോഗ്രാമുകളിൽ മെത്തേഡ്കൾ വളരെ ചെറുതാണ് കാരണം അത് ഒബ്ജക്റ്റ് ഓറിയന്റഡ് പ്രോഗ്രാമുകളുടെ സവിശേഷതയാണ് ഞങ്ങൾ വളരെ ഹ്രസ്വമായ മെത്തേഡ്കൾ എഴുതുന്നു തുടർന്ന് ഞങ്ങൾക്ക് ഈ ഇൻഹെറിറ്റെൻസ് ഉം തുടർന്ന് വിവിധ ക്ലാസുകളിലുടനീളമുള്ള മെത്തേഡ് സഹകരണവും ഉണ്ട് അതിനാൽ ഒരേ ക്ലാസ്സിൽ മെത്തേഡ്കൾ ഹ്രസ്വം ആയിരിക്കും കൂടാതെ സങ്കീർണത പരീക്ഷണ മെത്തേഡ്കളിൽ നിന്ന് ക്ലാസിലേക്കോ റിലേഷനിലേക്കൊ മാറുന്നു കാരണം മെത്തേഡ്കൾ ചെറുതാണ് ബഗുകൾ ഉണ്ടാകാനുള്ള സാധ്യത വളരെ കുറവാണ് ബഗുകൾ ഉണ്ടാകാന് ഉള്ള സാധ്യത ക്ലാസ്സ് റിലേഷൻ അസോസിയേഷനിലും അഗ്രഗേഷനിലും ഇൻഹെറിറ്റെൻസിലും മറ്റും ആണ് ഈ കോൺടെക്സ്റ്റ് ഇൽ നമ്മൾ ഒരു ഡിസൈൻ മോഡൽ വഴി ഒരു ഒബ്ജക്റ്റ് ഓറിയന്റഡ് പ്രോഗ്രാം പരീക്ഷിക്കേണ്ടതുണ്ട് കാരണം ക്ലാസ്സ് റിലേഷനും മറ്റും ഒരു ഡിസൈൻ മോഡൽ ഉപയോഗിച്ച് പ്രതിനിധീകരിക്കുന്നു അതിനാൽ പരമ്പരാഗത കോഡ് അധിഷ്ഠിത ടെസ്റ്റിംഗ് വൈറ്റ് ബോക്സ് ടെസ്റ്റിംഗ് ഒബ്ജക്റ്റ് ഓറിയന്റഡ് പ്രോഗ്രാമുകൾക്ക് പ്രാധാന്യം കുറവാണ് ഗ്രേ ബോക്സ് ടെസ്റ്റിംഗ് എന്ന് വിളിക്കപ്പെടുന്ന ഡിസൈൻ അധിഷ്ഠിത പരിശോധനയാണ് ഒബ്ജക്റ്റ് ഓറിയന്റഡ് പ്രോഗ്രാമുകൾക്ക് വളരെ പ്രധാനം കാരണം ബഗുകൾ ഉണ്ടാകുന്നത് ക്ലാസ് റിലേഷനിൽ ആണ് അത് മെത്തേഡ് ബോഡി അല്ലാതെ ഡിസൈൻ മോഡൽ ഉപയോഗിച്ച് പ്രതിനിധീകരിക്കുന്നു സംയോജന പരിശോധനയുടെ കാര്യമോ ഒരു പ്രൊസീജ്യറൽ പ്രോഗ്രാമ്മിൽ നിങ്ങൾ ഓർക്കുന്നുവെങ്കിൽ ഞങ്ങൾക്ക് ഒരു ഡിസൈൻ ഹയിരാർക്കി ഉണ്ടായിരുന്നു മൊഡ്യൂളുകൾ ഹയിരാർക്കി ആയി നിലവിലുണ്ട് അതിന്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾക്ക് മിക്സഡ് ഇന്റേഗ്രേഷൻ ടെസ്റ്റിങ് ന്റ്റെ ടോപ്പ് ഡൌൺ ബോട്ടം ടെക്നികുകൾ ഉണ്ട് പക്ഷേ ഇവിടെ നിർഭാഗ്യവശാൽ ഒരു ഒബ്ജക്റ്റ് ഓറിയന്റഡ് പ്രോഗ്രാമിൽ ഡിസൈൻ ഹൈറാർക്കി ഇല്ല ഒബ്ജക്റ്റ്ക്കൾ വളരെ ആർബിട്രറി മെത്തേഡ്കളിൽ ഇടപെടുന്നു ഇന്റേഗ്രേഷൻ ടെസ്റ്റിങ് ടെക്നികുകളും വ്യത്യസ്തമാണ് ഞങ്ങൾക്ക് ത്രെഡ് ബേസ്ഡ് ഇന്റേഗ്രേഷൻ ഉണ്ട് അതിനാൽ ഒരു ഇവന്റിനോട് പ്രതികരിക്കുന്നതിന് ആവശ്യമായ ക്ലാസുകൾ ഞങ്ങൾ സംയോജിപ്പിക്കുന്നു ഒരു മെത്തേഡ്നെ ഒരു ക്ലാസിൽ വിളിക്കുന്നു അതിനുശേഷം അത് മറ്റ് ക്ലാസ് മെത്തേഡ്കളെ വിളിക്കേണ്ടതുണ്ട് അതിനാൽ ഞങ്ങൾ അവയെ ഇന്റേഗ്രേറ്റ് ചെയ്യേണ്ടതുണ്ട് അതിനെ ത്രെഡ് ബേസ്ഡ് ടെസ്റ്റിംഗ് അല്ലെങ്കിൽ യൂസ് ബേസ്ഡ് ടെസ്റ്റിംഗ് എന്ന് വിളിക്കുന്നു ഒരു യൂസ് കേസ് എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ വ്യത്യസ്ത ക്ലാസുകളിൽ പങ്കെടുക്കുന്ന മെത്തേഡ്കൾ എന്തൊക്കെയാണ് ആ ക്ലാസുകളെ സമന്വയിപ്പിക്കേണ്ടതുണ്ട് അതിനാൽ സഹകരിക്കുന്ന വ്യത്യസ്ത ക്ലാസുകൾ ആദ്യം സംയോജിപ്പിച്ചിരിക്കുന്നു ഇവിടെ ഇന്റേഗ്രേഷൻ ടെക്നികുകൾ പോലും പ്രൊസീജ്യറൽ പ്രോഗ്രാമുകളിൽ നിന്ന് വ്യത്യസ്തമാണ് അതിനാൽ ഞങ്ങൾക്ക് ഇനി സമയമില്ല ഇവിടെ നിർത്തട്ടെ